ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് ഈയടുത്തകാലത്ത് അത്ഭുതകരമായ വളർച്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു ഭാഗിക കാരണമായി പറയുന്നത് ലോകവും അതിലെ വിവിധ പ്രദേശങ്ങളും ആളുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മറ്റൊരു രാജ്യത്ത് എളുപ്പത്തിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നു ഉത്പാദിപ്പിച്ച വസ്തുക്കൾ വിറ്റഴിക്കുന്നത് മാത്രമല്ല ഒരു രാജ്യത്ത് വിഭാവനം ചെയ്യുന്ന ഉത്പന്നങ്ങൾ മറ്റൊരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുകയും ലോകം മുഴുവനും വിറ്റഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഐഫോൺ ഐഫോണിൻറെ പിറകുവശത്ത് എഴുതിയിരിക്കുന്ന വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കാലിഫോർണിയയിൽ ആപ്പിൾ കമ്പനി ഡിസൈൻ ചെയ്യുകയും ചൈനയിൽ അതിൻറെ വിവിധ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ആപ്പിളിൻറെ എല്ലാ ഉത്പന്നങ്ങളുടെ കാര്യത്തിലും വളരെ പ്രധാനമായി ഐഫോണിൻറെ കാര്യത്തിലും സമാനമായ സ്ഥിതിയാണ് ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് നിയമവ്യവസ്ഥ ആപ്പിൾ പോലൊരു കമ്പനിയെ അതിൻറെ ഉത്പന്നങ്ങൾ ഒരു രാജ്യത്ത് വിഭാവനം ചെയ്യാനും വേറൊരു രാജ്യത്ത് കൂട്ടിയോജിപ്പിക്കാനും ലോകം മുഴുവനും അത് വിൽപ്പന നടത്താനും അനുവദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വിൽപനയിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം റോയൽറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉള്ള ആപ്പിൾ കമ്പനിക്ക് ലഭിക്കുന്നു ഇത് സാധ്യമാകുന്നത് ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് നിയമവ്യവസ്ഥ മൂലമാണ് ആപ്പിൾ കമ്പനി നിർവഹിക്കുന്ന ഐഫോണിൻറെ രൂപകൽപ്പനയും അതിൻറെ എൻജിനീയറിങ്ങും എല്ലാ ലോകരാജ്യങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന രീതിയിൽ ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് നിയമവ്യവസ്ഥ സംരക്ഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആപ്പിൾ കമ്പനിക്ക് അവരുടെ ഒരു ഉത്പന്നത്തിൻറെ മാതൃകാരൂപകൽപന യുഎസിൽ ചെയ്യാൻ സാധിക്കുന്നു അത് ചൈനയിൽ വച്ച് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്നു ഇന്ത്യയിലും മറ്റെല്ലാ ലോക രാജ്യങ്ങളിലും അത് വില്പന നടത്താൻ സാധിക്കുന്നു ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റിൻറെ ആശ്ചര്യജനകമായ വളർച്ച സാധ്യമായത് ദേശീയവും അന്തർദേശീയവുമായ ക്രമീകരണത്തിലൂടെ ആണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇന്റെലക്ച്വൽ പ്രോപർട്ടിയിലേക്കും അന്താരാഷ്ട്ര നിയമത്തിലേക്കും നോക്കുമ്പോൾ നമുക്ക് പേറ്റന്റ്സിലേക്കും ട്രേഡ് മാർക്കിലേക്കും കോപ്പിറൈറ്റിലേക്കും നോക്കാം ഇവ മൂന്നുമാണ് ഇന്റെലക്ച്വൽ പ്രോപർട്ടി ലോയുടെ മൂന്ന് പ്രധാന ശാഖകൾ തീർച്ചയായും മറ്റു ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട് എന്നാൽ ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റിൻറെ അന്താരാഷ്ട്രതലത്തിലുള്ള സ്വീകാര്യതയുടെ ഉത്ഭവവും ചരിത്രവും മനസ്സിലാക്കണമെങ്കിൽ പേറ്റന്റ്സും ട്രേഡ് മാർക്കും കോപ്പിറൈറ്റും മനസ്സിലാക്കിയാൽ ധാരാളം മതിയാകും പേറ്റന്റിന് രണ്ട് വിശാലമായ വർഗീകരണം ഉണ്ട് ഒന്ന് ദേശീയമായ നിയമവ്യവസ്ഥ രണ്ടാമത്തേത് അന്തർദേശീയവുമായ നിയമവ്യവസ്ഥ ദേശീയമായ നിയമവ്യവസ്ഥ എന്നുപറഞ്ഞാൽ സ്വദേശത്തെ പേറ്റന്റ് നിയമവ്യവസ്ഥ എന്നർത്ഥം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ജപ്പാനിലും ചൈനയിലും യൂറോപ്യൻ യൂണിയൻറെ യൂറോപ്യൻ പേറ്റന്റ് കൺവെൻഷൻ ആണെങ്കിൽ ഇന്ത്യയിലും മറ്റിതര രാജ്യങ്ങളിലും അവരുടെ സ്വന്തമായ ദേശീയമായ നിയമവ്യവസ്ഥയാണുള്ളത് പേറ്റന്റ്സ് അനുവദിക്കുന്നതു ദേശീയ നിയമവ്യവസ്ഥയാണ് അത് ഒരു രാജ്യത്തിൻറെ അതിരുകൾക്കുള്ളിൽ സംരക്ഷണം നൽകുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ട ഒരുപേറ്റന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുകയില്ല അവിടെ അതിനു സംരക്ഷണം ലഭിക്കുകയില്ല അതുപോലെതന്നെ ജപ്പാനിൽ അനുവദിക്കപ്പെട്ട പേറ്റന്റ് ചൈനയിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുകയില്ല അവിടെ അതിന് സംരക്ഷണം ലഭിക്കുകയില്ല പേറ്റന്റ് നിയമവ്യവസ്ഥ പ്രധാനമായും ദേശീയം ആണ് എന്നാൽ ചില അന്തർദേശീയ ക്രമീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പേറ്റന്റും ഉണ്ട് ഇതുവരെയും ആഗോളമായ അല്ലെങ്കിൽ ലോകം മുഴുവനും ഒരുപോലെ കണക്കാക്കുന്ന പേറ്റന്റ് ഇല്ല എന്ന് തന്നെ പറയണം എന്നാൽ അതിനുവേണ്ടി ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളത് പ്രാദേശികമായ പേറ്റന്റ് ഓഫീസുകൾ നൽകുന്ന പ്രാദേശികമായ പേറ്റന്റ് ആണ് ദേശീയമോ പ്രാദേശികമോ ആയ പേറ്റന്റ് ഓഫീസുകൾ നൽകുന്ന അവകാശങ്ങളാണ് ഈ അവകാശങ്ങളുടെ സംരക്ഷണം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനുള്ള ചില അന്തർദേശീയ ക്രമീകരണങ്ങളും ഉണ്ട് നിയമവ്യവസ്ഥയുടെ കാര്യത്തിൽ അന്തർദേശീയ തലത്തിലുള്ള സാധ്യത എന്നു പറയുന്നത് പേറ്റന്റ് അപേക്ഷകർക്ക് പല രാജ്യങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് എന്നാൽ കോപ്പിറൈറ്റുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ക്രമാനുഗതമായ ആഗോള കൺവെൻഷൻ ഉണ്ട് അതുമൂലം ഒരു രാജ്യത്ത് ലഭ്യമായ കോപ്പിറൈറ്റ് ആഗോളമായി സംരക്ഷിക്കപ്പെടുന്നു എല്ലാ രാജ്യങ്ങളിലും അതിന് സംരക്ഷണം ലഭിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മൈക്രോ സോഫ്റ്റിൻറെ പേഴ്സണൽ കമ്പ്യൂട്ടർ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിൻറെ ഒരു ട്രേഡ്മാർക്ക് നോട്ടീസ് കയറിവരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം കോപ്പിറൈറ്റ് നിയമവും മറ്റു പല നിയമങ്ങളും ഉപയോഗിച്ച് അത് ലോകം മുഴുവനും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതാണു കോപ്പിറൈറ്റ് നിയമത്തിൻറെ ശക്തി അവകാശം നിലവിൽ വന്നത് ഒരു രാജ്യത്തായിരിക്കാം എന്നാൽ ചരിത്രപരമായി കോപ്പിറൈറ്റ് ലോ ഉരുത്തിരിഞ്ഞുവന്നതിൻറെ പ്രത്യേകത കൊണ്ട് ഈ അവകാശം ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ നടപ്പിൽ വരുത്താനും സംരക്ഷിക്കാനും സാധിക്കുന്നു നമുക്ക് പേറ്റന്റ് നിയമവ്യവസ്ഥയിലേക്ക് വരാം നമുക്ക് ദേശീയ നിയമവ്യവസ്ഥയുണ്ട് ദേശീയമായ പേറ്റന്റ് ഓഫീസുകളുണ്ട് അവ പേറ്റന്റ് അനുവദിച്ചു നൽകുന്നു അന്തർദേശീയമായ നിയമവ്യവസ്ഥ എന്നുവച്ചാൽ ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റിൻറെ വ്യാപാര അനുബന്ധമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സഖ്യങ്ങൾ ഉണ്ട് നമ്മൾ അതിനെ ട്രിപ്സ് കരാർ എന്ന് വിളിക്കുന്നു രാജ്യങ്ങൾ പാലിക്കേണ്ട അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള മാനദണ്ഡം എന്താണെന്നും എത്ര കാലത്തേക്കാണ് സംരക്ഷണം നൽകേണ്ടതെന്നും പേറ്റന്റബിലിറ്റിക്കുള്ള മാനദണ്ഡങ്ങൾ ഏവയെന്നും അവകാശങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ക്രമീകരണങ്ങൾ ഏവയെന്നും തുടങ്ങി അനേകം കാര്യങ്ങളിൽ ട്രിപ്സ് കരാർ നിർദ്ദേശങ്ങൾ നൽകുന്നു ഒരു വിഷയത്തിൽ അന്തർദേശീയമായ കരാർ ഉണ്ടായിരിക്കുകയും അനേകം രാജ്യങ്ങൾ ഒപ്പുവയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടത്തെ ഏകീകരിക്കാൻ സാധിക്കും ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന നഷ്ടവും വേറൊരു രാജ്യത്ത് ഉണ്ടാകുന്ന നഷ്ടവും ഏകദേശം ഒരുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ തുല്യമായിരിക്കുകയോ ചെയ്യും സഖ്യങ്ങൾ കൂടാതെ നമുക്ക് ചില വ്യാപാര കരാറുകൾ കൂടിയുണ്ട് സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ നിലവിൽ വരുന്ന ചില കരാറുകളാണ് അല്ലെങ്കിൽ ഉഭയകക്ഷി നിക്ഷേപ സഖ്യമാണ് ഉഭയകക്ഷി സഖ്യങ്ങൾ എന്നുപറയുന്നത് രാജ്യങ്ങൾ തമ്മിലോ ഒരുകൂട്ടം രാജ്യങ്ങൾ തമ്മിലോ ഉടലെടുക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങളാണ് ഇത്തരം ബന്ധങ്ങൾ ഒരു പക്ഷേ ഒരു രാജ്യത്തെ ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് മറ്റൊരു രാജ്യത്ത് അംഗീകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം സോഫ്റ്റ് ലോ എന്ന് വിളിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് സോഫ്റ്റ് ലോ എന്ന് പറയുന്നത് അന്തർദേശീയമായ ഒരു കരാറാണ് ഏതെങ്കിലും ഒരു കാര്യം സഖ്യമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സോഫ്റ്റ് ലോയുടെ രൂപത്തിലാണ് അത് പുറത്തിറക്കുന്നത് രാജ്യങ്ങൾ പാലിക്കേണ്ട ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ആണവ രാജ്യങ്ങൾ തമ്മിൽ പൊതു സമ്മതം രൂപപ്പെടുന്ന പക്ഷം അത് കാലക്രമേണ സഖ്യം ആയി മാറുന്നു ഒരു രാജ്യത്തിൻറെ നിയമവ്യവസ്ഥ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പേറ്റന്റ് നിയമവ്യവസ്ഥ എന്നത് ഐപിഒ എന്ന് നമ്മൾ വിളിക്കുന്ന പേറ്റന്റ് ഓഫീസും പേറ്റന്റ് ഓഫീസിൽ നിന്നും മേൽ വിചാരണക്ക് പോകുന്ന ട്രിബ്യൂണൽസും ഐപിഎബി എന്ന് വിളിക്കുന്ന ഇന്റെലക്ച്വൽ പ്രോപർട്ടി അപ്പലറ്റ് ബോർഡും നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന രീതികളും എല്ലാം ചേരുന്നതാണ് കൂടാതെ അനുവദിക്കപ്പെട്ട പേറ്റന്റിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവകാശ ലംഘനം നടത്തിയാൽ നമ്മൾ ഹൈക്കോടതിയിലേക്കും സുപ്രീംകോടതിയിലേക്കും നീതി തേടി പോകുന്നു ഇതും ഇന്ത്യയുടെ പേറ്റന്റ് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേരുന്നതാണ് ഇന്ത്യയുടെ പേറ്റന്റ് നിയമവ്യവസ്ഥ നമുക്കിവിടെ പേറ്റന്റ് അനുവദിക്കുന്ന ഇന്റെലക്ച്വൽ പ്രോപർട്ടി ഓഫീസുണ്ട് അവിടെ എടുക്കുന്ന തീരുമാനങ്ങളിൽമേൽ ഉപരി വിചാരണ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ട്രിബ്യൂണലിൽ പോകുന്നു അതാണ് ഐപിഎൽബി അനുവദിക്കപ്പെട്ട ഒരു പേറ്റന്റ് കോടതി മുൻപാകെ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്നും മേൽ വിചാരണ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു പേറ്റന്റ്സിനെ സംബന്ധിക്കുന്ന അന്തർദേശീയ നിയമസംവിധാനം രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമത്തേതാണ് സബ്സ്റ്റാൻറ്റീവ് നിയമവ്യവസ്ഥ അടുത്തത് പ്രൊസീജറൽ നിയമവ്യവസ്ഥ സബ്സ്റ്റാൻറ്റീവ് നിയമവ്യവസ്ഥ എന്നു പറയുന്നത് അന്താരാഷ്ട്ര നിയമത്തിൻറെ മുഖ്യമായ നിബന്ധനകളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പരിശ്രമങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് കാരണം മുഖ്യമായ നിബന്ധനകളാണ് ഉൾക്കൊള്ളുന്നത് ഉദാഹരണത്തിന് എന്താണ് പേറ്റന്റ് ചെയ്യപ്പെടേണ്ടത് എന്നത് ഒരു മുഖ്യമായ നിബന്ധനയാണ് അതിൽ നടപടിക്രമങ്ങളുടെ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ആർക്കാണ് ഒരു പേറ്റന്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഒരു അപേക്ഷകന് വേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് അദ്ദേഹം എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് ഒരു പേറ്റന്റ് ഓഫീസുമായി ബന്ധപ്പെടുന്നതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളേണ്ടത് ഇതെല്ലാം പ്രൊസീജറൽ വ്യവസ്ഥിതിയുടെ ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻറ് ആയി പറയുന്നത് പാരീസ് കൺവെൻഷൻ ആണ് പാരീസ് കൺവെൻഷൻ പേറ്റന്റ് നിയമവ്യവസ്ഥയിൽ ചില മുഖ്യമായ വ്യതിയാനങ്ങൾ കൊണ്ടുവരികയുണ്ടായി പിന്നെ നമുക്കുള്ളത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അതിനു കീഴിൽ വരുന്ന ട്രിപ്സ് കരാറും പ്രൊസീജറൽ വ്യവസ്ഥിതിയിൽ പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി എന്ന പേരിൽ ഒരു കരാർ അല്ലെങ്കിൽ സഖ്യം ഉണ്ട് അത് പ്രകാരം ഒരു രാജ്യത്തുള്ള അപേക്ഷകന് വേറൊരു രാജ്യത്ത് കൂടി അപേക്ഷ സമർപ്പിക്കുന്നതിന് അനുമതി നൽകുന്നു പേറ്റന്റ് ലോ ട്രീറ്റി എന്ന പേരിൽ ഒരു സഖ്യം ഉണ്ട് അവർ ചില വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിച്ചു എങ്കിലും അത് വളരെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടില്ല പാരിസ് കൺവെൻഷന് പേറ്റന്റ്സിന് മിനിമം സ്റ്റാൻഡേർഡിന് രൂപം കൊടുക്കുവാൻ സാധിച്ചില്ല അതിനെ നടപ്പിൽ വരുത്തുവാനുള്ള മെക്കാനിസം m ഇല്ലാതെപോയി അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും ഇല്ല പാരിസ് കൺവെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏകീകൃത പേറ്റന്റ് നിയമവ്യവസ്ഥ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യം ഉളവാക്കി പാരീസ് കൺവെൻഷന് ശേഷമാണ് ട്രിപ്സ് കരാർ വികസിപ്പിച്ചെടുത്തത് എല്ലാ സാങ്കേതിക മേഖലകളിലും ഉള്ള പേറ്റന്റുകൾക്ക് ഇരുപതു വർഷത്തെ കാലാവധി എന്ന ഏകീകൃത നിയമത്തെ അംഗീകരിപ്പിച്ചെടുക്കുവാൻ സാധിച്ചു ആദ്യമായി പേറ്റന്റബിലിറ്റിക്കുള്ള നിബന്ധകൾ കൊണ്ടുവന്നത് ട്രിപ്സ് കരാറാണ് മൂന്നു കാര്യങ്ങളാണ് നിബന്ധനകൾ ആയി പറയുന്നത് ഒന്ന് നോവൽറ്റി രണ്ടാമത്തേത് ഇൻവെൻന്റീവ് സ്റ്റെപ്പ്സ് മൂന്നാമത്തേത് യൂട്ടിലിറ്റി പേറ്റന്റ് റൈറ്റ് ലംഘിക്കപ്പെടുകയാണെണെങ്കിൽ എന്ത് ചെയ്യണം അത് നടപ്പിൽ വരുത്താനുള്ള ക്രമീകരണങ്ങൾ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുവാൻ ഈ കരാറിന് സാധിച്ചിട്ടുണ്ട് പേറ്റന്റിന്മേൽ കടന്നുകയറ്റം നടന്നാലോ അതുമല്ലെങ്കിൽ പേറ്റന്റ് ഓഫീസിൽ നേരെത്തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ ഉണ്ടാകുകയാണെങ്കിലോ എങ്ങനെ പേറ്റന്റിന് അപേക്ഷിച്ച് വ്യക്തിക്ക് മേൽ വിചാരണയ്ക്ക് പോകാം എന്നതിനെക്കുറിച്ചും നിർദ്ദേശങ്ങൾ നൽകാൻ കരാറിന് സാധിച്ചിട്ടുണ്ട് ഇതുപോലെതന്നെ കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയ്ക്കും രണ്ടു ഭാഗങ്ങളുണ്ട് ദേശീയമായി നിയമവ്യവസ്ഥ വികസിതമായി വന്നിട്ടുണ്ട് അന്തർദേശീയമായും നിയമവ്യവസ്ഥ വികസിതമായി വന്നിട്ടുണ്ട് ദേശീയമായ വികസനം പ്രധാനമായും കോപ്പിറൈറ്റ് പരിമിതികളെക്കുറിച്ചാണ് ഉദാഹരണത്തിന് പേറ്റന്റ് പോലുള്ള കോപ്പിറൈറ്റുകൾ ഒരു രാജ്യത്തിൻറെ അതിരുകൾക്കുള്ളിൽ മാത്രമേ നടപ്പിൽ വരുത്തുവാൻ സാധിക്കൂ എന്നത് എന്നാൽ അന്തർദേശീയമായ നിയമവ്യവസ്ഥ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾക്കും ക്രമീകരണങ്ങൾക്കും ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രധാനമായും റെസിപ്റൊസിറ്റി അഥവാ പാരസ്പര്യത്തിൻറെ മേഖലയിലാണ് വരുന്നത് പാരസ്പര്യം അഥവാ റെസിപ്റൊസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കോപ്പിറൈറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങളെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു എങ്കിൽ ആ ആനുകൂല്യം അനുഭവിക്കുന്ന രാജ്യം അതേ ആനുകൂല്യം മറു രാജ്യത്തിന് നൽകുന്നു എന്നതാണ് ഇതാണ് പ്രിൻസിപ്പൽ ഓഫ് റെസിപ്റൊസിറ്റി കോപ്പിറൈറ്റ് നിയമ വ്യവസ്ഥയിൽ തന്നെ ധാരാളം കൺവെൻഷൻസ് ഉണ്ട് ആദ്യത്തെ കൺവെൻഷൻ ആണ് ബേൺ കൺവെൻഷൻ ബേൺ കൺവെൻഷൻ കോപ്പിറൈറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ലോകമൊട്ടുക്ക് എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ നടപ്പിൽ വരുത്താൻ ഇടവരുത്തി കോപ്പിറൈറ്റ് നടപ്പിൽ വരുത്തുന്നതിന് രജിസ്ട്രേഷൻ ഒരു നിർബന്ധിത ഘടകമല്ലാതാക്കി അതുകൊണ്ടുതന്നെ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ തന്നെയും ഒരു രാജ്യത്ത് കോപ്പിറൈറ്റ് ചെയ്ത ഒരു ഉത്പന്നം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു അടുത്ത കൺവെൻഷൻ ആണ് യൂണിവേഴ്സൽ കോപ്പി റൈറ്റ് കൺവെൻഷൻ മറ്റൊന്നാണ് റോം കൺവെൻഷൻ നമുക്ക് ട്രിപ്സ് കരാർ ഉണ്ട് വൈപോയുടെ ഒരുകൂട്ടം സഖ്യങ്ങൾ വേറെയുമുണ്ട് ഈ സഖ്യങ്ങളും കരാറുകളും ക്രമീകരണങ്ങളും എന്താണ് ചെയ്തത് അവർ അന്തർദേശീയ നിയമത്തിൽ രണ്ടു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ ട്രീറ്റ്മെൻറ് രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് മോസ്റ്റ് ഫേവേർഡ് ട്രീറ്റ്മെൻറ് ഇതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ രാജ്യത്തെ ഒരു പൌരന് നൽകുന്ന അവകാശ സംരക്ഷണം ഒരു വിദേശ രാജ്യത്തെ പൌരനും നൽകണമെന്നാണ് അതുകൊണ്ട് ഒരു വിദേശ രാജ്യത്തെ പൌരൻ നിങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ആണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങളുടെ രാജ്യത്തെ പൌരനെ പോലെതന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു പ്രിൻസിപ്പിൾ ഓഫ് മോസ്റ്റ് ഫേവേർഡ് ട്രീറ്റ്മെൻറ് മറ്റൊരു തുല്യതാ നിയമത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് നിങ്ങൾ ഒരു രാജ്യത്തിന് ഒരു പ്രത്യേക ആനുകൂല്യം അനുവദിക്കുകയോ ആ രാജ്യത്തോട് പ്രത്യേക രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു രാജ്യം ആയി കണക്കാക്കുന്നു എന്നാൽ ഇതേ രീതിയിലുള്ള ഒരു മനോഭാവവും പെരുമാറ്റവും നിങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളോടും കാണിക്കേണ്ടിയിരിക്കുന്നു ഇത് രാജ്യാന്തര തലത്തിലുള്ള ഒരു തുല്യതാ നിയമമാണ് എന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ ട്രീറ്റ്മെൻറ് രാജ്യത്തിനകത്ത് പാലിക്കേണ്ട തുല്യതാ നിയമമാണ് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥ കോപ്പിറൈറ്റിൻറെ സബ്ജക്റ്റ് മാറ്റർ വിവരിക്കുന്നുണ്ട് സഖ്യം കോപ്പിറൈറ്റ് എന്ന പദത്തെയും ഉൾക്കൊള്ളുന്നു കോപ്പിറൈറ്റ് പദാവലിയിൽ ധാരാളം പദങ്ങൾ പുതുതായി രൂപം കൊള്ളുന്നുണ്ട് അതുകൊണ്ടുതന്നെ കോപ്പിറൈറ്റിൻറെ അതിർത്തികൾ എന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് കോപ്പിറൈറ്റ് നിലവിൽ വരാൻ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന നിബന്ധനയും കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പ്രധാനമായി ഡികോട്ടമി ഇൻ കോപ്പിറൈറ്റ് എന്ന ആശയം കൊണ്ടുവന്നത് ട്രിപ്സ് കരാറാണ് ഡികോട്ടമി ഇൻ കോപ്പിറൈറ്റ് എന്നതിൻറെ അർത്ഥം കോപ്പിറൈറ്റ് ആശയങ്ങളെ സംരക്ഷിക്കുന്നില്ല ആശയങ്ങളുടെ ആവിഷ്കാരത്തെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥ ആശയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥ ഊഹിക്കുക കുറ്റാന്വേഷണ കഥകളിലെല്ലാം കുറ്റത്തെ പരിഹരിക്കുന്നത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഒരേ ആശയമായിരിക്കും എല്ലാം കഥകളിലും സാധാരണ കാണുക എന്നാൽ ആശയത്തെ ആവിഷ്കരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ആവിഷ്കരിക്കുന്ന രീതിയെ മാത്രമാണ് സംരക്ഷിക്കുന്നത് എങ്കിൽ ഒന്നിൽ കൂടുതൽ എഴുത്തുകാർക്ക് ഒരു ആശയം ഉപയോഗിച്ച് വ്യത്യസ്തമായ തങ്ങളുടെ രചനകൾ നടത്താൻ സാധിക്കും ഇതുകൊണ്ടാണ് പറയുന്നത് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥ ആശയങ്ങളെ സംരക്ഷിക്കുന്നില്ല മറിച്ച് ആശയങ്ങളുടെ ആവിഷ്കാരത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ട്രേഡ് മാർക്കിനും വ്യത്യസ്തമായ അന്താരാഷ്ട്ര കൺവെൻഷൻസ് ഉണ്ട് അതിലൊന്നാണ് പാരിസ് കൺവെൻഷൻ ഇത് പാറ്റേൺസിനും ഒരുപോലെ ബാധകമാണ് മറ്റൊന്നാണ് മാഡ്രിഡ് സഖ്യം ട്രേഡ് മാർക്ക് ലോ ട്രീറ്റി വർഗ്ഗീകരണത്തിന്മേലുള്ള നൈസ് കരാർ ട്രിപ്സ് കരാർ ഡബ്ല്യുടിഒ ഇവയെല്ലാം ഉണ്ട് ട്രേഡ് മാർക്ക് നിയമവ്യവസ്ഥയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ സാധിച്ചു കാരണം മറ്റെന്തിനേക്കാളുമുപരി ബ്രാൻഡുകൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മെഴ്സിഡസ് ബെൻസ് കമ്പനി അതിൻറെ വ്യവസായം ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കുകയും അതിൻറെ സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബ്രാൻഡുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ജനസമ്മതിയുള്ള ബ്രാൻഡുകളെ സംബന്ധിച്ച് ഏകീകരണം വളരെ അത്യാവശ്യമായിരുന്നു ട്രേഡ് മാർക്കുകളുടെ കാലാവധിയെകുറിച്ചും ഇവിടെ ഒരു മാർഗ്ഗരേഖ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയുണ്ടായി പരിമിതമായ നിശ്ചിതമായ കാലയളവുകൾ ഉള്ള കോപ്പിറൈറ്റിൽ നിന്നും പേറ്റന്റിൽ നിന്നും വ്യത്യസ്തമായി ട്രേഡ്മാർക്ക്കളുടെ കാലാവധി വീണ്ടും വീണ്ടും പുതുക്കി എടുക്കാവുന്നതാണ് ട്രേഡ് മാർക്ക് അനുവദിച്ചുതന്ന ഓരോ കാലാവധിക്കു ശേഷവും അത് വീണ്ടും പുതുക്കി എടുക്കാവുന്നതാണ് അങ്ങനെ അതിനെ സജീവമായി നിലനിർത്തുവാൻ സാധിക്കും കൊക്കകോളയുടെ ട്രേഡ് മാർക്ക് ഏകദേശം 100 വർഷത്തോളമായി സജീവമായി അവർ നിലനിർത്തുന്നു എം എഫ് എൻ എന്ന മറ്റൊരു സഖ്യം ഉണ്ട് അത് പ്രകാരം വിദേശരാജ്യങ്ങളിലെ പൌരന്മാർ രാജ്യത്തിനകത്ത് വിവേചനം അനുഭവിക്കുന്നില്ല മാത്രമല്ല വിദേശ രാജ്യങ്ങൾക്കുള്ളിലും തമ്മിൽ തമ്മിൽ വിവേചനം അനുഭവിക്കുന്നില്ല ട്രിപ്സ് കരാർ സർവീസ് മാർക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി വളരെ പ്രധാനമായി കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയിലും പേറ്റന്റ് നിയമവ്യവസ്ഥയിലും നിർബന്ധമായും ലൈസൻസ് കൊടുക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ട് കോപ്പിറൈറ്റ് ഹോൾഡർ തൻറെ ഉത്പന്നത്തിന്മേലോ കണ്ടുപിടിത്തത്തിന്മേലോ വേറൊരാൾക്ക് ലൈസൻസ് നൽകാതിരിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയും പേറ്റന്റ് നിയമവ്യവസ്ഥയും നിർബന്ധിത ലൈസൻസിന് അനുമതി നൽകുന്നുണ്ട് ഈ ലൈസൻസ് ഗവൺമെൻറ് നൽകുന്ന ലൈസൻസ് ആണ് എന്നാൽ ട്രേഡ് മാർക്ക് നിയമവ്യവസ്ഥയ്ക്ക് ഇപ്രകാരം നിർബന്ധിതമായി ലൈസൻസ് നൽകുന്ന ഒരു നടപടിക്രമം ഇല്ല എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ട്രേഡ്മാർക്ക് റൈറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻറെ സ്വകാര്യ സ്വത്താണ് വേറൊരാൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല